ഇത് വരെ നാം നോക്കിയത് രണ്ടു രീതിയിൽ ഉള്ള ഇൻഡിപെൻഡന്റ് സോഴ്സ് വച്ചാണ് ഒന്ന് കറന്റ് സോഴ്സ് അത് വ്യക്തമാണ് പിന്നെ വോൾടേജ് സോഴ്സ് അപ്പോൾ നാം സൂപ്പർ നോഡ് നിർമിക്കുക പിന്നെ അനാലിസിസ് ചെയ്യുക എന്നതും ആണും ഇനി നമുക്ക് നോക്കേണ്ടത് കൺട്രോൾഡ് സോഴ്സ് ഉപയോഗിച്ചു ഉള്ള നോഡൽ അനാലിസിസ് ആണ് ആദ്യം നാം നോക്കുക വോൾടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ആയിരിക്കും ഇത് ഒരു റെസിസ്റ്റർ പോലെ ആയിരിക്കും തോന്നുക നമുക്ക് റെസിസ്റ്റർ എന്നത് ഒരു വോൾടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ഇത് നാം മുമ്പ് ചർച്ച ചെയ്തതാണ് റെസിസ്റ്റർ എന്നത് ഒരു വോൾടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ഉപയോഗിച്ച് നിർമിച്ചതാണ് എന്നാൽ കണ്ടക്ടൻസ് മാട്രിക്സ് ന്റെ ചില പ്രോപ്പർട്ടി മാറുന്നതാണ് നാം അത് നോക്കുന്നതാണ് ഒരു വോൾടേജ് കോൺട്രോൾഡ് കറന്റ് സോഴ്സ് എന്നത് രണ്ടു നോഡുകൾക്ക് കുറുകെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഞാൻ അതിനെ നോഡ് 1 പിന്നെ നോഡ് 2 എന്നിങ്ങനെ വിളിക്കുന്നു നിയന്ത്രിക്കുന്ന നോഡുകൾ എന്നത് നോഡ് 3 ഉം 4 ഉം ആണ് ഈ വോൾടേജ് Vx ആണെങ്കിൽ നോഡ് 1 ന്റെയും 2 ന്റെയും കുറുകെ ഉള്ള വോൾടേജ് എന്നത് GmVxആയിരിക്കും ഞാൻ പറഞ്ഞു ഇത് റെസിസ്റ്റർ നു സമാനമാണ് അതായതു ഈ നോഡ് 1 നും 2 നും കുറുകെ ഒരു റെസിസ്റ്റർ ആണ് ഉള്ളതെങ്കിൽ ഈ നോഡുകൾക്കു കുറുകെ ഉള്ള വോൾടേജ് Vx ആണെങ്കിൽ അതിലൂടെ ഉള്ള കറന്റ് എന്നത് G Vx ആയിരിക്കും ഇവിടെ ഈ G എന്നത് ഈ റെസിസ്റ്ററിന്റെ കണ്ടക്ടൻസ് ആയിരിക്കും റെസിസ്റ്റൻസ് എന്നത് R പിന്നെ കണ്ടക്ടൻസ് എന്നത് G യും ആയിരിക്കും നമുക്കറിയാം നോഡ് 1 നും 2 നും ഇടയിലൂടെ ഉള്ള കറന്റ് എന്നത് Vx നെ ആശ്രയിച്ചിരിക്കുന്നു റെസിസ്റ്ററിന്റെ കാര്യത്തിൽ ഈ Vxഎന്നത് നോഡ് 1 നും 2 നും ഇടയിൽ ആയിരിക്കും പിന്നെ കൺട്രോൾഡ് സോഴ്സ് ആണെങ്കിൽ ഇത് മറ്റെവിടെ എങ്കിലും ആയിരിക്കും ഞാൻ ഇവിടെ നൽകിയത് ഒരു റെസിസ്റ്റർ ന്റെ നോഡൽ അനാലിസിസ് ൽ ഉള്ള പൊതുവായ ഘടന ആണ് ഞാൻ ഇവിടെ ആവശ്യമായ കാര്യങ്ങൾ ഫിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ എനിക്കുള്ളത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ ഇക്വേഷൻ ആണ് അത് കണ്ടക്ടൻസ് മാട്രിക്സ് G അൺ നോൺ വെക്റ്റർ V സോഴ്സ് വെക്റ്റർ I ഞാൻ കാണിച്ചു തന്നു നോഡ് 1 നോഡ് 2 അങ്ങനെ എന്ത് തന്നെ ആയാലും ഒരു റോ എന്നത് ഒരു ഇക്വേഷനു തുല്യമാണ് ആദ്യ റോ എന്നത് നോഡ് 1 ന്റെ KCL ആണ് രണ്ടാമത്തേത് നോഡ് 2 ന്റെ KCL അങ്ങനെ നോഡ് N വരെ പോകുന്നു അങ്ങനെ റഫറൻസ് നോഡ് ഉൾപ്പെടെ ആകെ N 1 നോഡുകൾ ആണ് ഈ സർക്യൂട് ൽ ഉള്ളത് അപ്പോൾ ആദ്യത്തെ കോളം V 1 വച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു പിന്നെ രണ്ടാമത്തേത് V 2 അങ്ങനെ V N വരെ ഞാൻ ഇവിടെ V1V2 V3 V4എന്നിവയാണ് കാണിച്ചിരിക്കുന്നത് അത് വായിക്കാനുള്ള എളുപ്പത്തിനാണ് ഇനി ഈ നോഡ് 1 ന്റെയും 2 ന്റെയും കുറുകെ ഒരു റെസിസ്റ്റർ കൊടുത്താൽ അത് ഇവിടെ ഈ കണ്ടക്ടൻസ് മാട്രിക്സ് നെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം ഈ നോഡ് 1 ൽ ഒരു കറന്റ് പിന്നെ ഒരു വോൾടേജ് എന്നിവ ഉണ്ടാകും നോഡ് 1 ലെ വോൾടേജ് എന്നത് V 1 പിന്നെ നോഡ് 2 ലെ V 2 എന്നിവയും ആയിരിക്കും അപ്പോൾ കറന്റ് എന്നത് G ആണ് ഈ G എന്നത് 1Rആണ് നാം വീണ്ടും പറയുന്നു ഈ കണക്കിൽ റെസിസ്റ്റൻസ് ഉപയോഗിക്കുക എന്നതാണ് കീഴ്വഴക്കം ഇവിടെ അത് ഇവിടെ കണ്ടക്ടൻസ് ആണ് ഈ കറന്റ് നോഡ് 1 ൽ നിന്നും നോഡ് 2 ലേക്കായിരിക്കും ഒഴുകുക ഈ റെസിസ്റ്റൻസ് R ആയി ബന്ധപ്പെട്ട എൻട്രി എന്നത് ഈ നോഡ് 1 ന്റെ ഇക്വേഷൻ ൽ പിന്നെ നോഡ് 2 ന്റെ ഈ ഇക്വേഷനിലും ആയിരിക്കും വരിക പിന്നെ ഈ കറന്റ് എന്നത് V1 നെയും V2നെയും ആയിരിക്കും ആശ്രയിക്കുക അത് വരിക V1 V2 എന്നിവയുമായി ബന്ധപ്പെട്ട കോളം ൽ ആയിരിക്കും നാം ഇത് നേരത്തെ ശരിയാക്കി റെസിസ്റ്റർ പിന്നെ കൺട്രോൾഡ് സോഴ്സ് എന്നിവ ഉപയോഗിച്ചുള്ള അനാലിസിസ് എങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പോൾ അറിയാം അത് കൊണ്ട് ഞാൻ ഈ കണ്ടക്ടൻസ് മാട്രിക്സ് ലെ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെ വരും എന്ന് പറയാം നോഡ് 1 ൽ അത് G ഇവിടെ G പിന്നെ G പിന്നെ നോഡ് 2 ൽ നിന്നും പുറത്തേക്കുള്ള കറന്റ് എന്നത് G ഓരോ നോഡിലും പുറത്തേക്കുള്ള കറന്റ് നാം ഒരുമിച്ചാക്കും അപ്പോൾ നോഡ് 2 ൽ നിന്നും പുറത്തേക്കുള്ള കറന്റ് എന്നത് G ആണ് പിന്നെ റോ ലും കോളം ലും മറ്റു ടെം ഉണ്ടാകുന്നതാണ് അത് മറ്റു എലമെന്റ് കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ പ്രത്യേക റെസിസ്റ്ററുമായി ബന്ധപ്പെട്ട നോഡുകൾ ആണ് ഇവിടെ പറയുന്നത് ഇനി ഞാൻ മറ്റൊരു കേസ് എടുക്കുന്നു അതിൽ ഇത് നോഡ് 1 അല്ല നോഡ് 4 എന്ന് എടുക്കുക അപ്പോൾ ഇത് ആയിരിക്കില്ല പകരം ആയിരിക്കും അപ്പോൾ കറന്റ് എന്നത് G ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ താഴേക്കായിരിക്കും റെസിസ്റ്റൻസ് കടന്നു വരിക ഇവിടെ നോഡ് 4 ന്റെ ഇക്വേഷനിൽ ആയിരിക്കും പിന്നെ ഇവിടെ നോഡ് 2 നോഡ് 4 ൽ നിന്നും ഉള്ള കറന്റ് എന്നത് Gആയിരിക്കും പിന്നെ നോഡ് 2 ൽ നിന്നും ഉള്ള കറന്റ് എന്നത് Gആണ് ഈ കറുപ്പിലും ചുവപ്പിലും ഉള്ളത് രണ്ടു കേസ് ആണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ഏതു കേസിലാണേലും ഈ 4 കറുത്ത എൻട്രി കൾ ആണ് ഈ മാട്രിക്സ് നു ഡയഗണൽ വച്ച് നോക്കിയാൽ ഇവ സിമെട്രി ആണ് പിന്നെ ഈ 4 ചുവന്ന എൻട്രി കളും മാട്രിക്സ് നു ഡയഗണൽ വച്ച് നോക്കിയാൽ ഇവ സിമെട്രി ആണ് രണ്ടു കേസിലും നമുക്ക് സിമെട്രി ആയ മാട്രിക്സ് ആണ് ലഭിക്കുക ഇനി നമുക്ക് ഇവിടെ ഒരു വോൾടേജ് കോൺട്രോൾഡ് കറന്റ് സോഴ്സ് ഉള്ളപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം ഇതിൽ കറന്റ് എന്നത് നോഡ് 1 ൽ നിന്നും നോഡ് 2 ലേക്കാണ് കറന്റ് പോകുക എന്നാൽ ഈ കറന്റ് എന്നത് ഈ Vx നു ആനുപാതികമാണ് അത് ഈ നോഡ് 3 ക്കും 4 നും ഇടയിൽ ഉള്ള വോൾടേജ് ആണ് അപ്പോൾ ഈ കറന്റ് എന്നത് g × G ആണ് നോഡ് 1 ലെ വോൾടേജ് എന്നത് V 1 ആണ് പിന്നെ നോഡ് 2 ലെ വോൾടേജ് എന്നത് V 2 നോഡ് 3 യിലെ വോൾടേജ് പിന്നെ നോഡ് 4 ലെ അപ്പോൾ ഈ കണ്ടക്ടൻസ് മാട്രിക്സ് ൽ അത് എങ്ങനെ ആയിരിക്കും വരിക ആദ്യം നോക്കേണ്ടത് എല്ലാ കറന്റും നോഡ് 1 ൽ നിന്നും 2 ലേക്കാണ് ഒഴുകുക അതിന്റെ അർഥം നോഡ് 1 ലും 2 ലും G m ന്റെ ടെം ഉണ്ടെന്നതാണ് അപ്പോൾ നോഡ് 1 ൽ നിന്നും ഒഴുകുന്ന കറന്റ് എന്നത് GMആണ് ഇവിടെ G m പിന്നെ ഇവിടെ G m നോഡ് 2 ൽ നിന്നും പുറത്തേക്കു പോകുന്ന കറന്റ് എന്നത് GM ആണ് ഇപ്പോൾ നിങ്ങൾക്കു കാണാം പലരീതിയിലും ഇത് ഒരു റെസിസ്റ്റർ നു തുല്യമാണ് ഇവിടെ ഈ രണ്ടു നോഡുകൾക്കിടയിൽ ഒരു കൺട്രോൾഡ് സോഴ്സ് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാൽ പ്രധാന വ്യത്യാസം എന്നത് ഇവിടെ എൻട്രി എന്നത് ഈ മാട്രിക്സ് നു ഡയഗണൽ വച്ച് നോക്കിയാൽ ഇവ സിമെട്രി ആകണമെന്നില്ല അതായതു നിങ്ങൾക്കു ഒരു വോൾടേജ് കോൺട്രോൾഡ് കറന്റ് സോഴ്സ് ഉള്ളപ്പോൾ നിങ്ങൾക്കു നേരെ നോഡ് ഇക്വേഷൻ എഴുതി മുന്നോട്ടു പോകാനാകുന്നതാണ് ഒരു കാര്യം ഈ കണ്ടക്ടൻസ് മാട്രിക്സ് എന്നത് സിമെട്രി ആയിരിക്കില്ല ഇനി ഞാൻ ഒരു പ്രത്യേക ഉദാഹരണം കാണിക്കാം ഞാൻ പൊതുവെ ചെയ്യുന്നത് ഒരു ഉദാഹരണം കാണിച്ചതിന് ശേഷം പൊതുവായി പറയുക എന്നതാണ് ഇവിടെ ഞാൻ ഇത് പറയുന്നു എന്നാൽ റെസിസ്റ്റർ ഉദാഹരണം ഞാൻ നൽകിയത് ഒരു റെസിസ്റ്റർ എങ്ങനെ ഒരു വോൾടേജ് കോൺട്രോൾഡ് കറന്റ് സോഴ്സ് നു തുല്യമാകുന്നു എന്ന് പറയുവാനാണ് അകെ വ്യത്യാസം റെസിസ്റ്റൻസ് മാട്രിക്സ് ലെ സിമെട്രി ആണ് നമുക്ക് പറയാം നാം ഇനി നോക്കുന്ന സർക്യൂട് എന്നത് ഇനി ദീർഘദൂരം നോക്കേണ്ടതാണ് എന്നാൽ ഒരു റെസിസ്റ്റർ എന്നത് ഒരു വോൾടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ഉപയോഗിച്ച് മാറ്റിയിരിക്കുന്നു ഇത് I1I3R1എന്നിവയാണ് നമുക്ക് ഇവിടെ 3 നോഡുകൾ മാത്രമേ ഉള്ളൂ 1 2 പിന്നെ 3 ഈ കറന്റ് സോഴ്സ് എന്നത് GMVx ആണ് പിന്നെ Vx എന്നത് ഇതാണ് അത് V2 V3ആണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഈ കറന്റ് സോഴ്സ് എന്നത് ഈ നോഡ് 2 ന്റെ ഇക്വേഷനിൽ മാത്രമേ വരൂ എന്തെന്നാൽ അത് നോഡ് 2 നും പിന്നെ റഫറൻസ് നോഡ് നും ഇടയിൽ ആണ് ബന്ധിപ്പിച്ചത് മുമ്പ് എടുത്ത അതെ റഫറൻസ് നോഡ് തന്നെ ആണ് ഇവിടെയും അതിനാൽ നോഡ് 1 ന്റെയും 3 യുടെയും ഇക്വേഷൻ പഴയതു തന്നെ ആയിരിക്കും അപ്പോൾ ഈ നോഡ് 2 നു ഞാൻ ഇക്വേഷൻ എഴുതിയാൽ അത് എനിക്ക് കിട്ടുക അകെ കറന്റ് ആയിരിക്കും അതായതു ക റന്റുകളുടെ അകെ തുക അത് 0 ആയിരിക്കും ആദ്യത്തേത് V2 V1 × G 1 2 ആണ് ഈ G m ലൂടെ ഉള്ള കറന്റ് എന്നത് V 2 V 3 G m ആണ് അകെ ഇത് 0 ആയിരിക്കും എനിക്ക് ലഭിക്കുക V 1 × G 1 2 V 2 × G 1 2 G 2 3 gm V 3 × G 2 3 G m എന്നത് 0 ആയിരിക്കും ഞാൻ ഇവിടെ പൂർണമായ കണ്ടക്ടൻസ് മാട്രിക്സ് എഴുതാൻ പോകുന്നു ഞാൻ പറഞ്ഞ പോലെ നോഡ് 1 ലെയും 3 ലെയും ഇക്വേഷൻ ആദ്യത്തേത് തന്നെ ആണ് അത് G11G12 ആണ് പിന്നെ G12 അവിടെ 0 ആണ് ആദ്യ റോ യിൽ പിന്നെ ഈ നോഡ് 3 ൽ G23 G33ആണ് അകെ കണ്ടക്ടൻസ് എന്നത് ഇവിടെ G23 ആണ് പിന്നെ ഇവിടെ 0 ആണ് പ്രത്യേക കേസ് എന്നത് ഈ നോഡ് 2 ആണ് അതു ഇവിടെ G 1 2 ആണ് അപ്പോൾ G23 G12G23 GM ആണ് നമ്മുടെ ഇക്വേഷൻ ഇനി അവസാനത്തേത് G23 GMആണ് ഇപ്പോഴും അത് G x V രൂപത്തിൽ ആണ് ഈ G മാട്രിക്സ് ൽ ഉള്ളത് കണ്ടക്ടൻസ് പിന്നെ ട്രാൻസ് കണ്ടക്ടൻസ് എന്നിവ ആണ് ഇവിടെയും ഇത് സിമെട്രിക് അല്ല എന്നാൽ ഈ G മാട്രിക്സ് ഇവിടെ സിമെട്രിക് ആണ് അപ്പോൾ അത് റെസിസ്റ്റർ മാത്രമുള്ള കേസിൽ നിന്നും വ്യത്യസ്തമല്ല കണ്ട്രോൾ സോഴ്സ് ഉപയോഗിച്ചുള്ള ഏറ്റവും ലളിതമായ സർക്യൂട് ഇതാണ് എന്ന് പറയാം ഇവിടെയും നമുക്ക് സൂപ്പർ നോഡ് ഉപയോഗിച്ചു നോക്കേണ്ടതായി വരും